ഉദാഹരണത്തിന് ഒരു ലിസ്റ്റിലെ ഓരോ ഘടകത്തിനെയും x ൽ നിന്ന് ഉരുത്തിരിയുന്ന മറ്റൊരു വിലകൊണ്ട് മാറ്റം ചെയ്യേണ്ടതായി വരാം അതുകൊണ്ട് താഴെ പറയുന്ന പ്രകാരം നമുക്കൊരു ലൂപ്പ് എഴുതാം for x in l x f അതിലെ ഓരോ x നെയും f കൊണ്ട് മാറ്റി സ്ഥാപിക്കുക ഇനി ഇത് ചെയ്യുവാനായി നമുക്കൊരു ഫംങ്ക്ഷൻ എഴുതാം പല ലിസ്റ്റിന് വേണ്ടിയും l ലെ പല വിലകൾക്ക് വേണ്ടിയും ആണിത് ചെയ്യുന്നത് നമുക്ക് പറയുവാൻ സാധിക്കും ഫംങ്ക്ഷൻ f ഉം ലിസ്റ്റ് l ഉം ആർഗ്യുമെന്റുകളായി എടുക്കുന്ന applylist നിർവ്വചിക്കുക കൂടാതെ ഓരോ x നും l നും ഈ x നെ f കൊണ്ട് പകരം വെയ്ക്കുക മാത്രമല്ല l എന്ന ലിസ്റ്റ് മാറ്റുവാൻ സാധിക്കുന്ന ഒരു ഘടകം ആയതിനാൽ വിളിക്കുന്ന ഫംങ്ക്ഷനിൽ വെച്ച് ഇത് പുതുക്കപ്പെടുന്നതായിരിക്കും ഇത് കൃത്യമായി ചെയ്യുവാനായി പൈത്തണിൽ സ്വന്തമായി map എന്ന പേരിൽ ഒരു ഫംങ്ക്ഷനുണ്ട് അതായത് map പ്രയോഗിക്കുന്നത് f ലാണ് അത് മാറിമാറി l ലെ ഓരോ ഘടകത്തിലും പ്രയോഗിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതായിരിക്കും x1 x2 എന്നീ ലിസ്റ്റുകളെടുത്ത് അതിൽ map പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് f f എന്നിവയായിരിക്കും map ൻറെ ഔട്ട്പുട്ട് ഒരു ലിസ്റ്റ് ആയിരിക്കണം നിർഭാഗ്യവശാൽ പൈത്തൺ 3 ൽ map ൻറെ ഔട്ട്പുട്ട് ഒരു ലിസ്റ്റ് ആയിരിക്കില്ല ഇത് പൈത്തൺ 3 ഉം പൈത്തൺ 2 ഉം തമ്മിലുള്ള മറ്റൊരു വ്യത്യാസമാണ് അതുകൊണ്ട് നമ്മൾ മുമ്പ് ചെയ്തത് പോലെ list എന്ന ഫംങ്ക്ഷൻ ഉപയോഗിക്കേണ്ടതായി വരും അതുകൊണ്ട് ഒരു ലിസ്റ്റ് ലഭിക്കുവാൻ വേണ്ടി listmapfl എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും എങ്കലും map ൻറെ ഔട്ട്പുട്ടിനെ നേരിട്ട് ഒരു for ലൂപ്പിന് നൽകാം ഉദാഹരണത്തിന് for i in listmapfl അല്ലെങ്കിൽ for i in mapfl എന്ന് പറഞ്ഞാൽ പോലും ഇത് പ്രവർത്തിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് മെനു ഇൻഡക്സ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ list എന്ന നൊട്ടേഷൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല അതിനെ മാറ്റുവാൻ നിങ്ങൾ list ഫംങ്ക്ഷൻ ഉപയോഗിക്കണം മാത്രമല്ല range പോലുള്ള ഫംങ്ക്ഷൻ d keys തുടങ്ങിയവയ്ക്കൊപ്പം ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് വളരെ ആകർഷകമാണ് ഇവയൊക്കെ നമുക്ക് ശ്രേണികളായ വിലകൾ തരുന്ന കാര്യങ്ങളാണ് ഈ ശ്രേണികളെല്ലാം പരിപൂർണ്ണമായി ലിസ്റ്റുകളല്ല അത് for ഫംങ്ക്ഷനുകളിൽ ഉപയോഗിക്കുവാൻ സാധിക്കും എന്നാൽ നിങ്ങൾക്ക് അവയെ ലിസ്റ്റുകളായി ഉപയോഗിക്കണമെങ്കിലും കൈകാര്യം ചെയ്യണമെങ്കിലും അതിനെ ശ്രേണിയിൽ നിന്നും ലിസ്റ്റ് രൂപത്തിലേക്ക് മാറ്റുവാൻ നിങ്ങൾ list ഉപയോഗിക്കണം നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു മാതൃകയായ കാര്യമെന്താണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റിൽ നിന്ന് പ്രത്യേക ഗുണം നിറവേറ്റുന്ന വിലകളെ വേർപെടുത്തി എടുക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് പൂർണ്ണസംഖ്യകളുള്ള number എന്ന് പേരുള്ള list ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവിഭാജ്യസംഖ്യകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് വേർപെടുത്തി എടുക്കാം അവിഭാജ്യസംഖ്യകളുടെ ലിസ്റ്റ് ശൂന്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു കൂടാതെ നമ്മൾ number എന്ന ലിസ്റ്റിൽ കൂടി കടന്നുപോകുന്നു മാത്രമല്ല ആ ലിസ്റ്റിലെ ഓരോ സംഖ്യയും അവിഭാജ്യസംഖ്യയാണോ എന്ന് പരിശോധിക്കുവാൻ നമ്മൾ test എന്ന ഫംങ്ക്ഷനിൽ പ്രയോഗിക്കുന്നു അത് ഒരു അവിഭാജ്യസംഖ്യയാണെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിനെ നമ്മുടെ ഔട്ട്പുട്ട് ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കുന്നു അതുകൊണ്ട് x1 x2 തുടങ്ങിയ ലിസ്റ്റിൽ നമ്മൾ ആരംഭിക്കുകയാണ് നമ്മൾ test പ്രയോഗിക്കുകയാണ് അവയിൽ ചിലത് ഒഴിവാകും അവയിൽ ചിലത് വിജയിക്കും അവയിൽ ചിലത് പരാജയപ്പെടും അവസാനം ഔട്ട്പുട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏതൊക്കെ കാര്യങ്ങളാണോ ഒഴിവാക്കപ്പെടുന്ന കാര്യങ്ങൾ അതായിരിക്കും അതുകൊണ്ട് പൊതുവിൽ നമുക്ക് ഒരു ഗുണവും ഒരു ലിസ്റ്റും എടുത്തുകൊണ്ട് select എന്ന് പേരുള്ള ഒരു ഫംങ്ക്ഷൻ എഴുതാം ലിസ്റ്റിലെ മുഴുവൻ ഘടകങ്ങളിലും കൂടി കടന്നുപോയിക്കൊണ്ട് അത് ഒരു സബ് ലിസ്റ്റ് സൃഷ്ടിക്കുന്നു ഗുണങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ മാത്രമല്ല ഏതൊക്കെ ഘടകങ്ങൾക്ക് വേണ്ടിയാണ് ഗുണങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചുകൊണ്ട് സബ് ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കുന്നു select ഉം നമ്മുടെ മുമ്പത്തെ map ഫംങ്ക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗുണം ഒരു ആർബിട്രറി ഫംങ്ക്ഷൻ അല്ല എന്നതാണ് അത് l നെ കൈകാര്യം ചെയ്യുന്നില്ല മറിച്ച് പ്രോപ്പർട്ടി ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് ലിസ്റ്റിലെ ഒരു ഘടകത്തിനെ സ്വീകരിക്കുന്ന ഒരു ഫംങ്ക്ഷൻ ആയിരിക്കും പ്രോപ്പർട്ടി അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളോട് പറയുന്നു ശരിയാണെങ്കിൽ അത് ഔട്ട്പുട്ടിലേക്ക് അയക്കുന്നു അല്ലെങ്കിൽ അവഗണിക്കുന്നു ഇതിനൊരു സ്വന്തമായ ഫംങ്ക്ഷനുമുണ്ട് ഇതിന് പറയുന്ന പേരാണ് ഫിൽട്ടർ അതായത് ഫിൽട്ടർ ഫംങ്ക്ഷൻ p യെ എടുക്കുന്നു അത് ഓരേ ഘടകത്തിനും ട്രൂ അല്ലെങ്കിൽ ഫാൾസ് തിരിച്ചു നൽകുന്നു കൂടാതെ സബ് ലിസ്റ്റിലുള്ള p യ്ക്ക് പൊരുത്തപ്പെടുന്ന ഓരോ ഇനത്തിനെയും അത് കൃത്യമായി പുറത്തെടുക്കുന്നു നമുക്ക് 0 മുതൽ 99 വരെയുള്ള സംഖ്യകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക ഈ ലിസ്റ്റിൽ നിന്ന് ഇരട്ടസംഖ്യകൾ മാത്രം നമുക്ക് പുറത്തെടുക്കണം അതാണ് ഒരു ഫിൽട്ടർ പ്രവർത്തനം പിന്നെ നമുക്ക് ഈ ഇരട്ടസംഖ്യകളിൽ ഓരോന്നിൻറെയും വർഗ്ഗം കണ്ടുപിടിക്കണം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഫിൽട്ടർ ഉപയോഗിച്ച് ഇരട്ടസംഖ്യകൾ എടുക്കുന്നു പിന്നെ നമ്മൾ square മാപ്പ് ചെയ്യുന്നു അതിനു ശേഷം നമുക്കൊരു ലിസ്റ്റ് ലഭിക്കുന്നു മാത്രമല്ല ഈ ലിസ്റ്റ് ലഭിച്ചതുകൊണ്ട് നമുക്ക് അതിലെ ഓരോ സംഖ്യയും കൂട്ടി ആകെ തുക കണ്ടുപിടിക്കാം ഈ ഫംങ്ക്ഷന്റെ ഒരു ഭാഗമല്ല തുക ഇരട്ടസംഖ്യകളുടെ വർഗ്ഗമാണ് നമുക്ക് ആദ്യം വേർതിരിച്ചെടുക്കേ ണ്ടതെങ്കിൽ അത് ചെയ്യുവാൻ വേണ്ടി ഫിൽട്ടറുകളുടെ ഒരു കൂട്ടുകെട്ട് ഉപയോഗിക്കാം അതിന് ശേഷം മാപ്പ് ചെയ്യുക ആദ്യം ഫിൽട്ടർ ഇരട്ടസംഖ്യകളെ നമുക്ക് തരുന്നു അതിനുശേഷം മാപ്പ് നമുക്ക് വർഗ്ഗങ്ങളും തരുന്നു കൂടാതെ square even എന്നിവ ഇവിടെയാണ് നിർവ്വചിക്കപ്പെട്ടിരിക്കുന്നത് മാപ്പും ഫിൽട്ടറും തമ്മിൽ യോജിപ്പിക്കുവാനായി ആ നൊട്ടേഷൻ ഉപയോഗിക്കാതെ തന്നെ വളരെ മികച്ച ഒരു മാർഗ്ഗമുണ്ട് വളരെ ലളിതമായ ഒരു ഗണിതശാസ്ത്ര ഉദാഹരണത്തിലൂടെ നമുക്കത് ലഭ്യമാകും മട്ടത്രികോണത്തെപ്പറ്റി നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും പൈത്തഗോറസ് സിദ്ധാന്ത പ്രകാരം x y z എന്നിവ യഥാക്രമം രണ്ട് വശങ്ങളുടെ നീളവും കർണ്ണത്തിന്റെ നീളവും ആണെങ്കിൽ x2 y2 z2 ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് പൈത്തഗോറിയൻ ട്രിപ്പിൾ പൂർണ്ണസംഖ്യകളുടെ ഒരു ഗണമാണ് ഉദാഹരണത്തിന് 3 4 5 എന്നിവയാണെങ്കിൽ x2 y2 z2 32 9 ആണ് 42 16 ആണ് 52 25 ആണ് പൈത്തഗോറിയൻ ട്രിപ്പിളിന് ഉദാഹരണങ്ങളായി രൂപപ്പെടാവുന്ന n ൽ കുറവുള്ള പൂർണ്ണസംഖ്യകളായ മുഴുവൻ x y z എന്നിവയുടെ വിലകൾ നമുക്ക് അറിയണമെന്ന് കരുതുക ഇതുപോലുള്ള പ്രയോഗങ്ങൾ വ്യവസ്ഥാപിതമായ ഗണിതശാസ്ത്ര നൊട്ടേഷനുകളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചേക്കാം 1 നും n നും ഇടയിലുള്ള ട്രിപ്പിൾസുകളായ മുഴുവൻ x y z നൽകിക്കൊണ്ട് ഈ ലംബത്തിന് അവയെ പ്രതിനിധാനം ചെയ്യാം അതുകൂടാതെ x2 y2 z2 ആണ് ഈ വിലകൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഇതൊരു നിലവിലുള്ള ഗണമാണ് നമുക്ക് x y z എന്നിവയുടെ വിലകൾ 1 മുതൽ n വരെയാണ് കൂടാതെ സാധ്യമായ എല്ലാ സംയോജനങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിൽ നിന്ന് x2 y2 z2 എന്ന നിർദ്ദിഷ്ട ഗുണമുള്ള സംയോജനങ്ങൾ നമ്മൾ പുറത്തെടുക്കുക സെറ്റ് സിദ്ധാന്തത്തിൽ ഇതിന് പറയുന്ന പേരാണ് സെറ്റ് കോംബ്രിഹെൻഷൻ പഴയ ഒരു സെറ്റിൽ ഉപാധികളോടെ ചില കാര്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് പുതിയ ഒരു സെറ്റ് സൃഷ്ടിക്കുന്ന ഒരു മാർഗ്ഗമാണിത് ഒരു തരം ട്രിപ്ലിംഗ് ഓപ്പറേറ്റർ വ്യക്തമായി പ്രയോഗിച്ചുകൊണ്ടും ഇത് സാധിക്കും ഈ ഓപ്പറേറ്റർ 3 വ്യത്യസ്ത ഗണങ്ങളെ എടുക്കുന്നു x ന്റെ വില 1 മുതൽ n വരെയും y ന്റെ വില 1 മുതൽ n വരെയും z ന്റെ വില 1 മുതൽ n വരെയും ആയിരിക്കും ഇവയെ ട്രിപ്പിൾസ് ആയി സംയോജിപ്പിക്കുന്നു x2 y2 z2 ആയിട്ടുള്ള ട്രിപ്പിൾസ് മാത്രം പുറത്തെടുക്കുവാനുള്ള ഒരു ഫിൽട്ടറിംഗ് പ്രവർത്തനമുണ്ട് കൂടാതെ ഇപ്പോൾ ഒരു ഒറ്റ ട്രിപ്പിളിലേക്ക് അവയെ സംയോജിപ്പിച്ച് കൈകാര്യം സാധിക്കുന്ന ഒരു ഉപായവും ഇപ്പോഴുണ്ട് അതായത് x y z എന്നാൽ പൊതുവിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള ഒരു ഗണത്തിൽ നിന്ന് നിങ്ങൾ പുതിയ ഒരു ഗണത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റു പല ഭാഷകളും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പൈത്തണും ഈ നൊട്ടേഷനെ ലിസ്റ്റുകളിലേക്കും വ്യാപിപ്പിക്കുവാൻ നമ്മളെ അനുവദിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് വരുന്നത് ഫംങ്ക്ഷണൽ പ്രാഗ്രാമിംഗ് എന്നറിയ പ്പെടുന്ന ശൈലിയിലുള്ള പ്രോഗ്രാമിംഗിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു നൊട്ടേഷനിൽ നിന്ന് പൈത്തൺ കടമെടുത്തതാണിത് മാത്രമല്ല ഇത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു നമ്മുടെ നേരത്തെയുള്ള കാര്യം എങ്ങിനെ എഴുതും എന്നത് ഇവിടെയുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ 100 ന് താഴെയുള്ള ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങൾ നേരത്തെ നമ്മൾ ഒരു മാപ്പ് ഫിൽട്ടർ കാര്യം നൽകിയിരുന്നു അതുകൊണ്ട് നമ്മളൊരു പരിധി എടുക്കും പുരോഗതിക്കനുസരിച്ച് നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്യും കൂടാതെ നമ്മൾ സ്ക്വയറിന്റെ ഒരു മാപ്പും ചെയ്യും പൈത്തണിൽ സെറ്റ് നൊട്ടേഷനിലെ for ന് മുമ്പെ വ്യക്തമായ ഒരു ലംബരേഖ താഴെയുണ്ട് അത് x ന്റെ ഒരു സ്ക്വയറിനെ എടുക്കുന്നു for i in range 100 അതായത് iseven ഇവിടെ നമുക്ക് 3 ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഉല്പാദകനുണ്ട് എവിടെ നിന്ന് വിലകൾ ലഭിക്കുമെന്ന് അത് നമ്മളോട് പറയുന്നു ലിസ്റ്റ് കോംബ്രിഹെൻഷൻ അല്ലെങ്കിൽ സെറ്റ് കോംബ്രിഹെൻഷൻ നിലവിലുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് വിലകൾ പുറത്തേക്കെടുക്കുന്നു അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് സൃഷ്ടിക്കുന്നു ഈ വിഷയത്തിൽ ലിസ്റ്റിന്റെ പരിധി 100 ആണ് എന്നാൽ നമുക്ക് മറ്റു ലിസ്റ്റുകളും ഉപയോഗിക്കാം നമുക്ക് for ഉപയോഗിക്കുന്നത് പോലെ for i in any one എന്ന് ഉപയോഗിക്കാവുന്നതാണ് ഈ ലിസ്റ്റിലെ വിലകളിലേക്ക് നമ്മൾ ഒരു ഫിൽട്ടർ പ്രയോഗിക്കും അത് നിലനിൽക്കുന്നതായിരിക്കും കൂടാതെ ഓരോ വിലയിലും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഈ അവസരത്തിൽ നമ്മൾ അതിന്റെ വർഗ്ഗം കണ്ടുപിടിച്ചു അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് map filter എന്നീ പദങ്ങൾ ഇടയ്ക്ക് ഉപയോഗിക്കാതെ ഇങ്ങിനെ നമുക്ക് ഒരു ലിസ്റ്റ് സൃഷ്ടിക്കുവാൻ സാധിക്കും ജനറേറ്ററായി നിങ്ങൾ for എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി for ഫിൽട്ടറും മാപ്പും അന്തർലീനമാകണമെങ്കിൽ ഫിൽട്ടറിലെ ജനറേറ്ററിന്റെ ഔട്ട്പുട്ടലേക്ക് ഒരു ഫങ്ക്ഷനെ പ്രയോഗിച്ചാൽ മാത്രം മതിയാകും നമുക്ക് പൈത്തഗോറിയൻ ട്രിപ്പിൾ ഉദാഹരണത്തിലേക്ക് തിരിച്ചു പോകാം 100 ൽ താഴെയുള്ള മുഴുവൻ പൈത്തഗോറിയൻ ട്രിപ്പിൾസ് x y z ആയി നമുക്ക് വേണം നമ്മൾ പറഞ്ഞതുപോലെ ആ പരിധിയിലുള്ള x y z എന്നിവയുടെ മുഴുവൻ വിലകളിൽ കൂടിയും ഇത് കടന്നു പോയിരിക്കണം നമ്മൾ മുമ്പ് ചെയ്ത 0 മുതൽ 100 വരെ മുഴുവൻ വിലകളുള്ള സിംഗിൾ ജനറേറ്ററിനേക്കാൾ അല്പം കൂടുതൽ സങ്കീർണ്ണമാണ് ഇത് ബഹുഗുണമുള്ള മാതൃകകളുപയോഗിച്ച് ഇതെഴുതുന്നത് വളരെ ലളിതമാണ് അതുകൊണ്ട് x2 y2 z2 ആവുന്ന രീതിയിൽ for x in range 100 for y in range 100 for z in range 100 എന്നിവയിൽ x y z എനിക്ക് വേണം if ഉപയോഗിച്ച് ഇതെഴുതാം സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി ഞനതിനെ ഒന്നിൽ കൂടുതൽ വരികളിലായി വിഭജിച്ചിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു പൈത്തണിലെ ഒരു വരിയിലുള്ള കോഡായിരിക്കും ഏത് ക്രമത്തിലായിരിക്കും ഇത് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് കൃത്യമായി ഒരു നെസ്റ്റഡ് ലൂപ്പ് പോലെ ഇത് പെരുമാറും നമ്മൾ ഒരു ലൂപ്പ് എഴുതിയിട്ടുണെന്ന് സങ്കല്പിക്കുക അതിൽ നമ്മൾ പറഞ്ഞതുപോലെ for x in range 100 for y in range 100 for z in range 100 എന്നിങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം x ന് 0 y ക്ക് 0 z ന് 0 എന്നിങ്ങനെ വിലകൾ നൽകും ആദ്യത്തെ ജോഡിയിൽ 0 0 0 എന്നീ ട്രിപ്പിൾസ് ആണ് പുറത്ത് വരുന്നത് അതിന് ശേഷം ഏറ്റവും ഉള്ളിലുള്ള ലൂപ്പ് അതായത് z ന്റെ വില മാറും അടുത്തത് 0 0 1 എന്നിവയായിരിക്കും ഇത് യഥാക്രമം x y z എന്നിവയാണ് അതായത് ഈ രീതിയിൽ 0 0 99 എത്തുന്നത് വരെ നമ്മൾ പോകുന്നു ഇത് 99 ൽ എത്തുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരികയും നമ്മൾ 1 എന്ന വിലയുമായി മുമ്പോട്ട് പോകുകയും ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്നത് 0 1 0 മുതൽ 0 1 90 0 1 99 എന്നുമായിരിക്കും ഏറ്റവും ഉള്ളിലെ ലൂപ്പ് അതായത് z ആയിരിക്കും ആദ്യം മുഴുമിപ്പിക്കുന്നത് അതിനു ശേഷം y ഏറ്റവും അവസാനം x ആയിരിക്കും അതുകൊണ്ട് ഇതും കൂടി ഓർമ്മിക്കുക ഇത് എങ്ങിനെയാണ് പൈത്തണിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം square നിർവ്വചിച്ചു കൊണ്ട് ആദ്യം നമുക്ക് തുടങ്ങാം x x നെ തിരികെ നൽകുന്ന square അതിനു ശേഷം x നെ 2 കൊണ്ട് ഹരിച്ചിട്ട് ലഭിക്കുന്ന ശിഷ്ഠം 0 ആണോ എന്ന് പരിശോധിക്കുന്ന iseven നമുക്ക് നിർവ്വചിക്കാം അതായത് നമുക്ക് square എന്നാൽ 64 ആണ് iseven തെറ്റാണ് iseven സത്യമാണ് നമുക്ക് അടുത്തത് ലിസ്റ്റ് കോംബ്രിഹെൻഷൻ ആണ് x ഇരട്ട സംഖ്യകളായിട്ടുള്ള for x in range 100 ൽ square ന്റെ ഗണങ്ങളെ നമുക്ക് പരിശോധിക്കാം അതുകൊണ്ട് 0 അതിലുണ്ടെന്ന് നാം മനസ്സിലാക്കി അതുകൊണ്ട് 02 22 42 62 അങ്ങിനെ തുടരുന്നു ഇതാണ് നമ്മുടെ ലിസ്റ്റ് കോംബ്രിഹെൻഷൻ നമുക്ക് അടുത്തതായി പൈത്തഗോറിയൻ ട്രിപ്പിൾ ചെയ്യാം for x in range 100 for y in range 100 for z in range 100 എന്നിവയിൽ നമുക്ക് x y z എന്നിവ ആവശ്യമുണ്ട് ഇതാണ് നമ്മുടെ 3 ജനറേറ്ററുകൾ ഇവിടെ xxy y z z എന്ന വ്യവസ്ഥ പാലിക്കപ്പെടണം വരാൻ സാധ്യതയുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ഇനി കാണുകയാണ് പ്രത്യേകിച്ച് പ്രാരംഭ ഘട്ടത്തിൽ നിങ്ങൾ എവിടെയോ കണ്ടതായ പരിചയമുള്ള ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് 3 4 5 തുടങ്ങിയവ എന്നാൽ 4 0 4 പോലുള്ള യുക്തിപരമല്ലാത്ത ചില സംഖ്യകളും നിങ്ങൾ കാണും അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഇത് കുറെ നന്നായി ചെയ്യേണ്ടി വന്നേക്കാം എന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ടതില്ല ഞാൻ ഊന്നൽ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 0 77 77 അവിവേകമായി തോന്നാം എന്നാൽ 3 4 5 ഉദാഹരണമായെടുത്താൽ ചിലയിടങ്ങളിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് 4 3 5 ആണ് 3 4 5 ഉം 4 3 5 ഉം ഒരേ ട്രിപ്ളറ്റാണെന്ന് ചിലർ വാദിച്ചേക്കാം അതുകൊണ്ട് എങ്ങിനെയാണ് നമ്മൾ ഈ തനിപ്പകർപ്പിനെ ഒഴുവാക്കുന്നത് അതുകൊണ്ട് പിന്നീടുള്ള ലൂപ്പ് അതിന് മുമ്പുള്ള ഒരു ലൂപ്പിനെ ആശ്രയിക്കുന്നത് വിധത്തിലുള്ള for loop പോലെയുള്ള ചില സാഹചര്യം നമുക്ക് ഉണ്ടായേക്കാം i ഏതോ ഒരു വിലയിൽ നിന്ന് മറ്റൊരു വിലയിലേക്ക് പുറത്തെ ലൂപ്പിനെ മാറ്റകയാണെങ്കിൽ i യിൽ തുടങ്ങി j മുമ്പോട്ട് പോകുന്നതായി ഉള്ളിലെ ലൂപ്പിൽ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് പൈത്തഗോറിയൻ ട്രിപ്പ്ലെറ്റുകളെ നമുക്ക് ഇനി പറയുന്ന പ്രകാരം മാറ്റി എഴുതാം x ന്റെ പരിധി 100 വരെയും എന്നാൽ y ആരംഭിക്കുന്നത് 0 ന് പകരം x മുതലാണ് അതുകൊണ്ട് y ഒരിക്കലും x നേക്കാൾ ചെറുതല്ല z ഒരിക്കലും y നേക്കാൾ ചെറുതല്ല അതുകൊണ്ട് ഈ പതിപ്പ് യഥാർത്ഥത്തിൽ തനിപ്പകർപ്പുകളെ ഒഴിവാക്കും ഇവിടെ പൈത്തഗോറസിന്റെ നമ്മുടെ നേരത്തെയുള്ള നിർവ്വചനമുണ്ട് ഇവിടെ നമുക്ക് x y z എന്നിവ അനിയന്ത്രിതമാണ് അതുകൊണ്ട് y യുടെ പരിധി 0 മുതൽ 100 വരെയല്ല എന്നും മറിച്ച് y യുടെ പരിധി x മുതൽ 100 വരെയാണെന്നും z ന്റെ പരിധി y മുതൽ 100 വരെയാണെന്നും ഞാൻ പറയുന്നു കൂടാതെ ഇവിടെ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഓരോ ശ്രേണിയിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ ചെറിയ ഒരു ലിസ്റ്റാണ് ഇവിടെ x y യേക്കാൾ ചെറുതോ തുല്യമോ y z നേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും 3 4 5 പോലുള്ള കാര്യങ്ങളുടെ ഒരു പതിപ്പ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു നിങ്ങൾക്ക് 3 4 5 എന്നിവ കാണാം എന്നാൽ 4 3 5 എന്നിവ കാണാൻ പറ്റില്ല അടുത്തത് 5 12 13 ആണ് 4 3 5 എന്നിവ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലെ ജനറേറ്ററുകൾക്ക് പുറത്തെ ജനറേറ്ററുകളെ ആശ്രയിക്കുവാൻ സാധിക്കും ഈ ലിസ്റ്റ് കോംബ്രിഹെൻഷൻ നൊട്ടഷൻ വിശേഷിച്ച് ലിസ്റ്റുകൾക്ക് പ്രാരംഭവിലകൾ നൽകുവാൻ ഉപകാരപ്രദമാണ് ഉദാഹരണത്തിന് നമ്മൾ മട്രിക്സ് പോലുള്ള കണക്ക് കൂട്ടലുകൾ ചെയ്യുമ്പോൾ മട്രിക്സുൾക്ക് പ്രാരംഭ വില നല്കുവാൻ എനിക്ക് ഒരു 4 x 3 മട്രിക്സിനെ മുഴുവൻ പൂജ്യം കൊണ്ട് പ്രാരംഭ വിലകൾ നൽകണമെന്ന് കരുതുക അതായത് 4 by 3 മട്രിക്സിന് 4 നിരകളും 3 കോളങ്ങളുമാണുള്ളത് മാത്രമല്ല ഞാനുപയോഗിക്കുന്ന സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ വരികൾ തിരിച്ചാണ് ഞാനതിനെ സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നാമത്തെ നിര സൂക്ഷിക്കണം അതായത് ഒന്നാമത്തെ നിരയിൽ 3 എൻട്രികൾ രണ്ടാമത്തെ നിരയിൽ 3 എൻട്രികൾ എന്നിങ്ങനെ തുടരുന്നു ഇവിടെ ഒരു പ്രാരംഭീകരണമുണ്ട് ഓരോ നിരയിലും അത് ചില കാര്യങ്ങളാണ് 4 നിരകൾക്ക് വേണ്ടി അതായത് 0 1 2 3 ഞാൻ ചിലത് ചെയ്യുന്നു മാത്രമല്ല എന്താണ് ആ ചിലത് 3 സൈസ് ഉള്ള പൂജ്യങ്ങളടങ്ങിയ ഒരു ലിസ്റ്റ് ഞാൻ നിർമ്മിക്കുന്നു ഓരോ നിരയിലും 0 1 2 എന്നീ കോളങ്ങളിലെ j പൂജ്യമായിരിക്കും ഇത് യാഥാർത്ഥത്തിൽ കൃത്യമായ ശ്രേണി ജനറേറ്റ് ചെയ്യും അത് ജനറേറ്ററുകൾക്ക് പ്രാരംഭ വിലകൾ നൽകുവാനായി നമുക്ക് ആവശ്യമുണ്ട് മട്രിക്സിന് പ്രാരംഭ വിലകൾ നൽകുവാനുള്ള ലിസ്റ്റ് കോംബ്രിഹെൻഷൻ നൊട്ടേഷൻ ഇവിടെയുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ j യുടെയും പരിധി 4 വരെ എടുത്തുകൊണ്ട് ഒരു ലിസ്റ്റ് സൃഷ്ടിക്കുന്നു മാത്രമല്ല i യുടെ പരിധി 3 വരെ എടുത്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി 4 പ്രാവശ്യം 3 പൂജ്യങ്ങൾ 3 പൂജ്യങ്ങൾ 3 പൂജ്യങ്ങൾ വീതം ഇവിടെ 4 നിരകളുണ്ട് ഈ പ്രാരംഭീകരണ പ്രവർത്തനം രണ്ട് ഘട്ടങ്ങളായി നമ്മൾ വിഭജിക്കുകയാണ് ആദ്യം നമ്മൾ 3 പൂജ്യങ്ങളടങ്ങിയ zerolist എന്ന പേരിൽ ഒരു ലിസ്റ്റ് സൃഷ്ടിക്കുന്നു for i in range 3 പ്രകാരം 0 ഉപയോഗിച്ച് പ്രാരംഭവിലകൾ നൽകുന്നു ഇത് 3 പൂജ്യങ്ങളുള്ള ഒരു ലിസ്റ്റ് സൃഷ്ടിക്കുന്നു അതിനുശേഷം നാല് നിരകളിൽ നമ്മൾ ഈ ലിസ്റ്റ് നാല് പ്രവശ്യം കോപ്പി ചെയ്യുന്നു zerolist ന്റെ നാല് കോപ്പികളാണ് യഥാർത്ഥത്തിൽ matrixl എന്ന് നമുക്ക് പറയാം അടുത്തതായി നമ്മൾ ഒരു എൻട്രി മാറ്റാൻ പോകുകയാണ് ഉദാഹരണത്തിന് ഒന്നാമത്തെ നിരയിലെ ഒന്നാമത്തെ എൻട്രി മുകളിൽ നിന്ന് അത് യഥാർത്ഥിൽ രണ്ടാമത്തെ നിരയാണ് നിങ്ങൾ സാധാരണ ഗതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് രണ്ടാമത്തെ നിരയിൽ രണ്ടാമത്തെ കോളം ആണ് അതുകൊണ്ട് ലിസ്റ്റിൽ രണ്ടാമതായി നമ്മൾ ലിസ്റ്റ് 1 നെ നമ്മൾ എടുക്കുന്നു ഇതിന്റെ ഔട്ടപുട്ടാണ് നിങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമുക്കിപ്പോൾ l എന്ന zerolist ന്റെ 4 കോപ്പികളുണ്ട് ബാഹ്യഭാഗത്ത് l എന്നത് കൃത്യമായി തുല്യമാണ് l11 7 ആണെന്ന് നമുക്ക് പറയാം നിങ്ങൾ ഇപ്പോൾ l പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് 7 ഒരെണ്ണമല്ല പകരം 4 കോപ്പികളുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തോ ആണിത് L11 7 ന് ശേഷമുള്ള ഔട്ട്പുട്ട് ഇതാണ് 0 7 0 0 7 0 0 7 0 0 7 0 കൂടാതെ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് അതിന് കാരണം ഒരു zerolist തയ്യാറാക്കിയതിന് ശേഷം അതിന്റെ 4 കോപ്പികൾ തയ്യാറാക്കുമ്പോൾ ഫലത്തിൽ ഒരേ ലിസ്റ്റിന്റെ 4 പേരുകളാണ് നമ്മൾ തയ്യാറക്കുന്നത് അതുകൊണ്ട് l0 അല്ലെങ്കിൽ l1 അല്ലെങ്കിൽ l2 അല്ലെങ്കിൽ l3 ഉപയോഗിച്ച് അതിനെ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ അതിൽ 4 ഉം സൂചിപ്പിക്കുന്നത് ഒരേ zerolist യാണ് അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിനെ പുതുക്കിയാൽ യഥാർത്ഥിൽ 4 ലിസ്റ്റുകളെ മുഴുവൻ അത് പുതുക്കുന്നു ചുരുക്കിപ്പറഞ്ഞാൽ map filter എന്നിവ ലിസ്റ്റുകളെ കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും ഉപകാരപ്രദമായ ഫങ്ക്ഷനുകളാണ് മറ്റു പ്രോഗ്രാമിംഗ് ഭാഷകളെ പോലെ ഫങ്ക്ഷൻ പ്രോഗ്രാമിംഗിനെ ആശ്രയിച്ചുകൊണ്ട് പൈത്തൺ നൽകുന്ന ലിസ്റ്റ് കോംബ്രിഹെൻഷൻ എന്ന നൊട്ടേഷൻ ഉപയോഗിച്ച് map നെയും filter നെയും സംയോജിപ്പിക്കുന്നു കൂടാതെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലിസ്റ്റ് കോംബ്രിഹെൻഷന്റെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ദ്വിമാന അല്ലെങ്കിൽ മൾട്ടി ഡൈമൻഷണൽ ലിസ്റ്റിന് ശരിയായ വിധത്തിൽ ഡിഫാൾട്ട് വിലകൾ നൽകിക്കൊണ്ട് പ്രാരംഭീകരിക്കുവാൻ സാധിക്കുന്നു എന്നതാണ്